ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള ക്ലാസിലേക്ക് വീണ്ടും സ്വാഗതം എന്റെ പേര് ആരാധന മാലിക് ഈ കോഴ്സിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു ബുദ്ധിമുട്ടുള്ള ജീവനക്കാരെ കൈകാര്യം ചെയ്യുക എന്ന വിഷയമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടിരുന്നത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന നിലയിൽ നിങ്ങൾക്ക് വ്യത്യസ്ത സാഹചര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യത്യസ്ത ജീവനക്കാരുമായി നിങ്ങൾക്ക് എങ്ങനെ ഇടപെടാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അച്ചടക്കത്തിന്റെ ആവശ്യകത തടയുന്നതിനായി നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന എച്ച്ആർ തന്ത്രങ്ങളിൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും എന്നതിലാണ് ഈ പ്രത്യേക പ്രഭാഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അച്ചടക്കം എന്താണെന്ന് നമ്മൾ സംസാരിച്ചു അച്ചടക്കം എങ്ങനെ നൽകാമെന്ന് നമ്മൾ സംസാരിച്ചു അച്ചടക്കപരമായ പെരുമാറ്റങ്ങൾ ആവശ്യമായേക്കാവുന്ന സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ എന്തുചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നിങ്ങൾ എന്തിന് ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക വിദ്യകൾ നടപ്പിലാക്കണം നമ്മൾ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളെ നേരിടാൻ അത് ആവശ്യമാണ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ എന്ന നിലയിലുള്ള നമ്മളുടെ ജോലിയുടെ പരിധിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമെങ്കിൽ നമ്മളുടെ ജീവനക്കാരെ അച്ചടക്കമാക്കേണ്ടതിന്റെ ആവശ്യകത തടയാൻ നമ്മൾക്ക് കഴിഞ്ഞേക്കും അതിനാൽ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളുടെയും പ്രക്രിയകളുടെയും സംരക്ഷകരെന്ന നിലയിൽ ജീവനക്കാർക്കും സൂപ്പർവൈസർമാർക്കും മാനേജർമാർക്കും മേലുദ്യോഗസ്ഥർക്കും ചുമതലയുള്ള ആളുകൾക്ക് ഇത് ഒരു വിജയ സാഹചര്യമായിരിക്കും അതിനാൽ നമുക്ക് അതിൽ തുടരാം ഈ പ്രത്യേക പ്രഭാഷണത്തിനായി ഞാൻ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയലുകളും നമ്മൾ പരാമർശിച്ച പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത് ഗോമസ് മെജിയ ബാൽക്കിന്റെയും Gomez Mejia Balkin and Cardy കാർഡിയുടെയും പുസ്തകമാണ് നമ്മൾ മനുഷ്യരാണ് ആളുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടും ആളുകൾക്ക് ദേഷ്യം വരും ആളുകൾ കലഹങ്ങളിൽ ഏർപ്പെടാം വ്യത്യസ്ത തരത്തിലുള്ള പരാതികൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ എന്നിവയുമായി ആളുകൾ നിങ്ങളുടെ അടുക്കൽ വരാം അവർ വരും അവർ നിങ്ങളോട് ആക്രോശിച്ചേക്കാം അവരുടെ ദേഷ്യം നിങ്ങളോട് ചൊരിഞ്ഞേക്കാം പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ എന്ന നിലയിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നിട്ട് പറയുന്നു എന്ത് കൊണ്ട് എന്നോട് അങ്ങനെ പെരുമാറിയില്ല എന്തുകൊണ്ടാണ് സ്ഥിതി ഇങ്ങനെ മാറിയത് കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന നിലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കുകയും ഈ സാഹചര്യത്തെ നേരിടാൻ ഒരു തന്ത്രം കൊണ്ടുവരികയും ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ് അതിനാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന നിലയിലുള്ള നിങ്ങളുടെ ശേഷിയിൽ വളരെ ദേഷ്യമുള്ള ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം ആ സാഹചര്യത്തെ എങ്ങനെ നേരിടും നിങ്ങൾ ആ സാഹചര്യത്തെ ശരിയായി കൈകാര്യം ചെയ്താൽ ആ സാഹചര്യത്തെ നിങ്ങൾ യുക്തിസഹമായി കൈകാര്യം ചെയ്താൽ ആരെയും ശാസിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കാം വളരെ ദേഷ്യത്തോടെ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വ്യക്തിയെ അവന്റെ ക്ഷോഭം പുറത്തുപറയാൻ അനുവദിക്കുക എന്നതാണ് തടസ്സപ്പെടുത്തരുത് തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക അവന്റെ വിഷമം പുറത്തു പറയാൻ അനുവദിക്കുക വളരെ ദേഷ്യത്തോടെ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അവർ പറയുന്നതെന്തും അവർ പറയട്ടെ എല്ലാം അവൻ പുറത്തു പറയട്ടെ തുടർന്ന് അവരുടെ സാഹചര്യത്തോട് കഴിയുന്നിടത്തോളം സമ്മതിക്കുക അവർ പറയുന്നതെന്തും അംഗീകരിക്കുക എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വ്യക്തമായും വളരെ അസ്വാസ്ഥ്യമുള്ള ഈ വ്യക്തിയുടെ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കാനും ഇത് സഹായിക്കുന്നു അതെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയുക എനിക്ക് നിങ്ങളെ എന്ത് സഹായിക്കാനാകും നിങ്ങൾ ഇത് പറയുന്ന നിമിഷം ബന്ധപ്പെട്ട വ്യക്തിക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഒരു സുരക്ഷിത മേഖലയിലാണെന്ന് അയാൾ അല്ലെങ്കിൽ അവൾ പിന്തുണയ്ക്കപ്പെടുന്നുവെന്ന് അനുഭവപ്പെടും കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്കത്തിന്റെ കൂടുതൽ ആവശ്യമോ അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ചൊരിയുന്നതിന്റെ ആവശ്യമോ കുറയും അതിനാൽ വ്യക്തിയുടെ ഭാഗം കേൾക്കുന്നതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി വേവലാതിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി താൽപ്പര്യമുണ്ടെങ്കിൽ വ്യക്തിയെ സഹായിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായി താൽപ്പര്യമുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന നിലയിലുള്ള നിങ്ങളുടെ കഴിവിൽ ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വലിയൊരു ഭാഗമാണ് അപ്പോൾ അത് ജീവനക്കാരനെ ശാന്തമാക്കാൻ സഹായിക്കും പ്രശ്നം അംഗീകരിക്കുക വ്യക്തമായും ഒരു വ്യക്തി എല്ലാം ഒരു ബാക്ക്ബേണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വരാൻ വ്യക്തി ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ദയവായി പ്രശ്നം തള്ളിക്കളയരുത് ഒരു പ്രശ്നം നിലവിലുണ്ടെന്ന് അംഗീകരിക്കുക നിങ്ങൾ അത് മനസ്സിലാക്കുകയോ മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അത് മനസിലാക്കാൻ ശ്രമിക്കാം ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സുഖം തോന്നും കൂടാതെ എല്ലാവർക്കും ഇല്ലെങ്കിലും മിക്ക പങ്കാളികൾക്കും സ്വീകാര്യമായ ഒരു പരിഹാരത്തിലേക്ക് നിങ്ങൾ രണ്ടുപേർക്കും എത്തിച്ചേരാനാകും നിങ്ങൾ കഴിയുന്നിടത്തോളം ക്ഷമ ചോദിക്കുക ഒഴിവ്കഴിവുകൾ പറയരുത് ഓർഗനൈസേഷൻ നിങ്ങളോട് പെരുമാറിയ വിധത്തിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയരുത് പക്ഷേ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നതിൽ ക്ഷമിക്കണം എന്നതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം ക്ഷമിക്കണം എനിക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് നേരത്തെ കാണാൻ കഴിഞ്ഞില്ല ക്ഷമിക്കണം എനിക്ക് ഇതുവരെ സാഹചര്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് എന്നോട് വന്ന് സംസാരിക്കണമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് സാഹചര്യം എത്തി അതിനാൽ അത് വരെ ശരിയാണ് എന്നാൽ അതിനപ്പുറം തീർച്ചയായും നിങ്ങൾക്കറിയില്ല സാഹചര്യത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം പക്ഷേ കാര്യം അധികം വിട്ടുപോയതിൽ ഖേദമുണ്ട് എന്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിക്കാൻ സമയവും പരിശ്രമവും നിങ്ങൾക്ക് ആവശ്യമായെന്ന് നിങ്ങൾ പറഞ്ഞാൽ ബന്ധപ്പെട്ട വ്യക്തിക്ക് സുരക്ഷിതത്വം തോന്നും ബന്ധപ്പെട്ട വ്യക്തിക്ക് സഹതാപം തോന്നും കൂടാതെ വ്യക്തിയുടെ കോപം കുറയാനും സാധ്യതയുണ്ട് കൂടാതെ ഏതെങ്കിലും നെഗറ്റീവ് പെരുമാറ്റം തടയാൻ കഴിയും നിങ്ങളുടെ അധികാരപരിധിക്കുള്ളിൽ അവരുടെ പരാതികൾ കേൾക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് അറിയാമെങ്കിൽ ആ വ്യക്തി ഇടപെടുകയോ അട്ടിമറിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യില്ല നമുക്കെല്ലാവർക്കും ഒരു അധികാരപരിധിയുണ്ട് വീണ്ടും ഞാൻ മുൻ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് എന്റെത് അവസാനിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മുടെ പരിമിതികളുണ്ട് ആ അതിരുകൾ നമ്മൾ മറികടക്കരുത് നമുക്ക് കാര്യങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കാം നാം എപ്പോഴും നമ്മുടെ അധികാരപരിധിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം കൂടാതെ ബന്ധപ്പെട്ട വ്യക്തിയെ സഹായിക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മുടെ അതിരുകൾ മറികടക്കരുത് പക്ഷേ സഹായത്തിനായി വരുന്ന വ്യക്തിയെ സഹായിക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യണം ദേഷ്യം വരാൻ സാധ്യതയുള്ള ഇടത്താണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് ആ വ്യക്തി തിരിച്ചറിയുന്ന നിമിഷം കൂടുതൽ അച്ചടക്കത്തിന്റെ ആവശ്യകത ഇല്ലാതാക്കാം ഫലം വിലയിരുത്തുക നിങ്ങൾ എന്തുതന്നെ ചെയ്താലും അത് എങ്ങനെ നിങ്ങൾ പറയുന്നതോ ചെയ്യുന്നതോ ആയ സാഹചര്യത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ദയവായി കണ്ടെത്തുക തുടർന്ന് ഹ്യൂമൻ റിസോഴ്സ് വ്യക്തിയെന്ന നിലയിൽ നിങ്ങളുടെ ശേഷിയിൽ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് ഒരു തീരുമാനം എടുക്കുക ആ വ്യക്തിയുടെ മുൻകാല റെക്കോർഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ വ്യക്തിയ്ക്കെതിരെ കോടതിയിൽ എന്തെങ്കിലും കേസുകൾ നിലവിലുണ്ടോ മോട്ടോർ വാഹനമോ റോഡ് ലംഘനമോ പോലുള്ള ചില കേസുകൾ അത്ര ഗുരുതരമല്ലായിരിക്കാം അവ ഗുരുതരമാണ് എന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവ വളരെ ഗൌരവമുള്ളവയല്ല മറുവശത്ത് ഒരു വ്യക്തി സംഘടനയിൽ നിന്ന് മോഷ്ടിച്ചതിന് ഫണ്ട് ദുരുപയോഗം ചെയ്തതായി ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടാതെ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ആ വ്യക്തി ഉപദ്രവിച്ചതായി ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുന്നു കൂടാതെ ഒരു ജീവനക്കാരനെ എടുക്കുന്നതിന് മുമ്പ് അത് കണക്കിലെടുക്കേണ്ടതുണ്ട് അതിനാൽ ആ കാര്യങ്ങൾ കഴിയുന്നിടത്തോളം പരിശോധിക്കണം ഭാവിയിൽ ഒരു വ്യക്തി എങ്ങനെ പെരുമാറുമെന്ന് കണ്ടെത്താൻ കഴിയില്ല കമ്പനിയിലെ വിവിധ ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന ഒന്നിലധികം അഭിമുഖങ്ങൾ അത് പക്ഷപാതം കുറയ്ക്കും അത് മോശം നിയമന തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത് തടയുന്നു അതിനാൽ കഴിയുന്നിടത്തോളം നിങ്ങളുടെ അഭിമുഖ പാനലിൽ നിരവധി ആളുകളെ ഉൾപ്പെടുത്തുക കൂടാതെ ബന്ധപ്പെട്ട വ്യക്തിയെ ഒന്നിലധികം റൌണ്ട് ഇന്റർവ്യൂകളിലൂടെ വൈവിധ്യമാർന്ന വ്യക്തികളുമായുള്ള അഭിമുഖം നടത്തുക സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മിശ്രിതമാകാം നിങ്ങൾക്ക് ഓർഗനൈസേഷനിൽ ഭിന്നശേഷിയുള്ള ആളുകളെ അഭിമുഖങ്ങളിൽ ഇരുത്താം നിങ്ങൾക്ക് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ആളുകളെ അഭിമുഖത്തിൽ ഇരുത്താം അതിനാൽ ഈ വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം പ്രധാനമായി കണക്കാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ ഈ സ്ഥാനം നിങ്ങൾക്ക് എത്രത്തോളം പ്രധാനമാണ് ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിന് നിരവധി തലങ്ങളിലുള്ള അഭിമുഖങ്ങൾ നടത്താനുള്ള റിസോഴ്സസ് ഇല്ലായിരിക്കാം പക്ഷേ കഴിയുന്നിടത്തോളം നിങ്ങളുടെ ഇന്റർവ്യൂ പാനൽ കഴിയുന്നത്ര വൈവിധ്യമാർന്ന ജീവനക്കാരെയോ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഇന്റർവ്യൂ ചെയ്യുന്നവരെയോ ഉപയോഗിച്ച് ജനകീയമാക്കുക അതിനാൽ പക്ഷപാതങ്ങൾ കടന്നുവരില്ല എല്ലാവരും ഒരേ സമൂഹത്തിൽ നിന്നോ ഒരേ ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നോ ആയിരിക്കരുത് അതിനാൽ നിങ്ങൾ ഒരു പ്രത്യേക പ്രദേശത്തെ മാത്രം അനുകൂലിക്കുന്നതായി ആരോപിക്കപ്പെടരുത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പ്രദേശത്ത് നിന്നുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നത് മനുഷ്യ സ്വഭാവമാണ് എന്നാൽ മുഴുവൻ പാനലും ആ ആളുകളെ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അപ്പോൾ ജോലി കിട്ടാത്തവർ പറയും ഇവർ വേറെ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ് എന്ന് അതിനാൽ എനിക്ക് ജോലി ലഭിച്ചില്ല ഈ ആളുകൾ വ്യത്യസ്ത ഭൂമിശാസ്ത്ര പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് അതിനാൽ അവർ അവരുടെ സ്വന്തം പ്രദേശത്ത് നിന്നുള്ള ആളുകൾക്ക് മുൻഗണന നൽകുന്നു അതുകൊണ്ടാണ് എനിക്ക് ജോലി ലഭിക്കാത്തത് എന്ന് പറയും ഉദ്യോഗാർത്ഥികളുടെ മനോഭാവം പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കാനുള്ള കഴിവ് എന്നിവ വിലയിരുത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തിത്വ പരിശോധനകൾ നടത്താറുണ്ട് സിവിൽ സർവീസ് പരീക്ഷകളിൽ ഇത് ചെയ്യാറുണ്ട് ഇന്ത്യൻ സായുധ സേനയിൽ ഇത് ചെയ്യാറുണ്ട് അതിനാൽ ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇത് ശരിക്കും ഉദ്യോഗാർത്ഥി സമ്മർദ്ദത്തിൻ കീഴിൽ പ്രകടനം നടത്താൻ പ്രാപ്തനാണോ എന്ന് കാണാൻ ഇന്റർവ്യൂ ബോർഡിനെ സഹായിക്കുന്നു ഉദ്യോഗാർത്ഥിക്ക് ശാരീരികമായി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് വ്യക്തിത്വ പരിശോധനകളുണ്ട് ഫിസിക്കൽ ടെസ്റ്റുകൾ ഉണ്ട് അഭിമുഖങ്ങൾ ഉണ്ട് ഒരു നിശ്ചിത കാലയളവിൽ വ്യക്തിയുടെ പെരുമാറ്റം നിരീക്ഷിക്കപ്പെടുന്നു സൌന്ദര്യമത്സരങ്ങളിലും ഇത് സംഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ സൌന്ദര്യ രാജ്ഞികൾ ഒരിടത്ത് ഒരുമിച്ചിരിക്കുന്നു കൂടാതെ അവരുടെ പെരുമാറ്റം ദിവസം തോറും നിരീക്ഷിക്കപ്പെടുന്നു അതിനാൽ പല കേസുകളിലും ഇത് സംഭവിക്കുന്നു പക്ഷേ അത് നിങ്ങളുടെ സ്ഥാപനം തിരയുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് ആളുകളേ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിന് ഇത്തരം പരിശോധനകൾ നടത്താനുള്ള വിഭവങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ സമയവും വിഭവങ്ങളും നിയമന തീരുമാനങ്ങൾക്കായി നിങ്ങൾ ചെലവഴിക്കുന്നു പിന്നീട് മോശം പെരുമാറ്റത്തിൽ ഏർപ്പെടാൻ ജീവനക്കാരുടെ സാധ്യതകൾ കുറയുന്നു വ്യക്തിയുടെ ജോലി അനുയോജ്യത കഴിയുന്നിടത്തോളം വിലയിരുത്തേണ്ടതുണ്ട് കൂടാതെ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ തടയാൻ അത് നിങ്ങളെ സഹായിക്കും പരിശീലനവും വികസനവുമാണ് അടുത്ത വിഭാഗം പരിശീലനത്തിലും വികസനത്തിലും ജീവനക്കാരെ ഏറ്റെടുത്തുകഴിഞ്ഞാൽ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളുടെ ഫലപ്രാപ്തി നമ്മൾ നോക്കുന്നു ഫലപ്രദമായ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ പുതിയ ജീവനക്കാരോട് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ആശയവിനിമയം നടത്തുന്നു ജീവനക്കാർ സ്വയം എന്തിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞിരിക്കണം ഉദാഹരണത്തിന് അധ്യാപന തൊഴിലിൽ പ്രത്യേകിച്ച് ഐഐടി ഖരഗ്പൂർ പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ ഫാക്കൽറ്റി അവരുടെ ഗവേഷണത്തിനും അധ്യാപനത്തിനും ആവശ്യമായ സമയം ചെലവഴിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രാത്രി 8 9 10 വരെ ഓഫീസുകളിൽ ഇരിക്കണമെന്ന് ആരും ഞങ്ങളോട് പറയുന്നില്ല പക്ഷേ അത് നൽകപ്പെട്ടതാണ് അതിനായി എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് അതിനാൽ ഓർഗനൈസേഷന്റെ സംസ്കാരം ഞങ്ങൾ ജോലിക്ക് വരാൻ ആഗ്രഹിക്കുന്നു നമ്മൾ എല്ലാവരും ജോലിക്ക് വരാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഓഫീസുകളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നു ഞങ്ങളുടെ വിദ്യാർത്ഥികളെ കുറിച്ച് ഞങ്ങളുടെ പഠിപ്പിക്കലിനെക്കുറിച്ച് ഞങ്ങളുടെ ഗവേഷണത്തെക്കുറിച്ച് ഞങ്ങൾ ആവേശഭരിതരാണ് കൂടാതെ ഞങ്ങൾക്ക് എല്ലാ വിഭവങ്ങളും നൽകിയിരിക്കുന്നു അതിനാൽ ഓഫീസ് സമയത്തിനും വീട്ടിലെ സമയത്തിനും ഇടയിൽ കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു ലൈൻ ഇല്ല അതിനാൽ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് പരസ്പരം അറിയാം കൂടാതെ ഇത് ഇവിടെ ഒരു വലിയ സന്തുഷ്ട കുടുംബം പോലെയാണ് അതിനാൽ സംസ്കാരം അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആ സംസ്കാരം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അത് ആസ്വദിക്കുന്നില്ലെങ്കിൽ ഐഐടി ഖരഗ്പൂർ പോലുള്ള സ്ഥലത്ത് നിങ്ങൾ വരരുത് നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിനും വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും ഇടയിൽ വ്യക്തമായ അറകൾ ഉണ്ടായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യവസായ ടൌൺഷിപ്പുകൾ പോലും നിങ്ങൾക്കുള്ളതല്ല വ്യവസായ ടൌൺഷിപ്പുകൾ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് നേരിട്ടുള്ള അനുഭവം ഇല്ല ഇൻഡസ്ട്രി ടൌൺഷിപ്പുകൾ പോലും അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനാൽ ജോലിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉൾക്കൊള്ളുന്നു കൂടാതെ എല്ലാവരും ജോലിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു കൂടാതെ നിങ്ങൾ വൈകുന്നേരം ഒരേ ആളുകളുമായി ഹാംഗ് ഔട്ട് ചെയ്യുകയും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയാണ് സൌഹൃദവും സംഘടനയും കെട്ടിപ്പടുക്കുന്നത് ഇത് രണ്ടുപേർക്കും ഉപകാരമുള്ള സാഹചര്യമാണ് കാരണം ആളുകൾക്ക് സംഘടനയോട് പ്രതിബദ്ധത തോന്നുന്നു ജീവനക്കാർക്ക് സ്ഥാപനത്തോട് പ്രതിബദ്ധത തോന്നുന്നു കൂടാതെ തങ്ങളുടെ ജീവനക്കാരെ നന്നായി പരിപാലിക്കുന്നുണ്ടെന്ന് സംഘടന കരുതുന്നു ഫലപ്രദമായ ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ ജീവനക്കാരെ ഓർഗനൈസേഷന്റെ പ്രതീക്ഷകളിലേക്ക് നയിക്കുന്നു സംഘടന നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും എന്താണ് മൂല്യങ്ങളെന്നും സംസ്കാരം എങ്ങനെയുള്ളതാണെന്നും നിങ്ങളോട് പറയുന്നു കൂടാതെ ഇതെല്ലാം ജീവനക്കാരെ അവരുടെ സ്വന്തം പെരുമാറ്റം നന്നായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ സ്ഥാപനത്തിന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നൽകാൻ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ എല്ലാം ചെയ്യും അതിനാൽ പ്രാരംഭ പരിശീലനത്തിലൂടെയും ആനുകാലിക പുനർ പരിശീലന പരിപാടികളിലൂടെയും നൈപുണ്യ വിടവുകൾ കുറയ്ക്കൽ കഴിവുകൾ മെച്ചപ്പെടുത്തൽ എന്നിവയിലൂടെ ഓർഗനൈസേഷന് നിങ്ങളോട് പെരുമാറാൻ കഴിയും അതിനാൽ ജീവനക്കാർ വളരാൻ ഇഷ്ടപ്പെടുന്നു ജീവനക്കാർ എങ്ങനെ വളരുമെന്ന് അറിയാൻ ഇഷ്ടപ്പെടുന്നു ജീവനക്കാർ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നു നമുക്കെല്ലാവർക്കും ഉള്ളത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഒപ്പം നാമെല്ലാവരും അപ്ഡേറ്റായി തുടരാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ ജോലി നന്നായി ചെയ്യുന്നതിനായി നമ്മൾ പഠിക്കേണ്ട പുതിയ കാര്യങ്ങളുടെ നമ്മളുടെ കഴിവുകൾ അപ്ഡേറ്റ് ചെയ്യാൻ ഓർഗനൈസേഷൻ സൌകര്യമൊരുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾക്ക് സന്തോഷമുണ്ട് നമ്മൾക്ക് ജോലിക്ക് പോകണം കൂടാതെ ഇതെല്ലാം ഓർഗനൈസേഷന്റെ അവസാനം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു അതിനാൽ ഇത് ഒരു വിൻ വിൻ സാഹചര്യമാണ് ഓർഗനൈസേഷന് വളരെ നല്ല ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും മികച്ച റീ ട്രെയിനിംഗ് പ്രോഗ്രാമുകളും ഉണ്ടായിരിക്കുന്നത് മൂല്യവത്തായ നിക്ഷേപമാണ് ജീവനക്കാർക്ക് കൃത്യമായ പരിശീലനം നൽകിയിട്ടുണ്ട് പിന്നീട് സംഘടനയിൽ ഉപയോഗിക്കേണ്ടതെന്തും പഠിപ്പിക്കുന്നു കൂടാതെ തുരുമ്പെടുത്ത കാര്യങ്ങളിൽ അവർ വീണ്ടും പരിശീലിപ്പിക്കപ്പെടുന്നു ഒപ്പം ജീവനക്കാരെന്ന നിലയിൽ ഉൽപ്പാദനക്ഷമത നിലനിർത്താൻ അവരെ സഹായിക്കുന്നു അവരുടെ കീഴുദ്യോഗസ്ഥർക്ക് ഫീഡ്ബാക്ക് നൽകുന്നതിനും പരിശീലനം നൽകുന്നതിനും സൂപ്പർവൈസർമാരെ പരിശീലിപ്പിക്കുന്നു പ്രശ്നസാഹചര്യങ്ങളിൽ അച്ചടക്കത്തിന് പകരം കൌൺസിലിംഗുമായി ഇടപെടാൻ സൂപ്പർവൈസർമാരെ പ്രോത്സാഹിപ്പിക്കുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിലും ഞാൻ ഇത് പറഞ്ഞിരുന്നു ഹ്യൂമൻ റിസോഴ്സ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ നമ്മളുടെ ജോലി ആളുകളെ അവർ ചെയ്യുന്നതിൽ നിന്ന് തടയുക എന്നതല്ല അവരെ ശാസിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ തെറ്റാണെന്ന് അവരോട് പറയുകയല്ല ഹ്യൂമൻ റിസോഴ്സ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ നമ്മളുടെ ജോലി നമ്മളുടെ ജീവനക്കാരുടെ വളർച്ചയും വികാസവും സുഗമമാക്കുക എന്നതാണ് അവർ കഴിയുന്നത്ര ഉൽപ്പാദനക്ഷമതയുള്ളവരായി മാറുകയും കഴിയുന്നിടത്തോളം ഓർഗനൈസേഷനോട് പ്രതിബദ്ധത പുലർത്തുകയും ചെയ്യുക എന്നതാണ് അതിനാൽ ജീവനക്കാർക്ക് പരിശീലനം നൽകാനും ഫീഡ്ബാക്ക് നൽകാനും സൂപ്പർവൈസർമാർക്ക് പരിശീലനം നൽകാം അതിനാൽ സൂപ്പർവൈസർമാരും അവരുടെ സൂപ്പർവൈസറും തങ്ങളെ നന്നായി പരിപാലിക്കുന്നുണ്ടെന്ന് ജീവനക്കാർക്ക് തോന്നുന്നു കരിയർ ഗോവണിയുടെ വികസനം അല്ലെങ്കിൽ വ്യക്തവും കൈവരിക്കാവുന്നതുമായ കരിയർ പുരോഗതി പ്രോഗ്രാമുകൾ കരിയർ പുരോഗതിക്കുള്ള പിന്തുണ എന്നിവ ഓർഗനൈസേഷനിൽ ആളുകൾക്ക് എങ്ങനെ ഉയരാൻ കഴിയുമെന്ന് കാണിക്കുക ഓർഗനൈസേഷനിൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എങ്ങനെ അവരുടെ പ്രമോഷനുകൾ നേടാം മുതലായവ അവരോട് പറയുക അവർ പ്രതിബദ്ധതയോടെ നിലനിൽക്കും അതിനാൽ കരിയർ പുരോഗതിയുടെ പാത വ്യക്തമായിരിക്കണം നിങ്ങൾ അത് വ്യക്തമാക്കൂ ആളുകൾ അർപ്പണബോധമുള്ളവരായിരിക്കും അത് അവരുടെ കരിയറിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ അവരെ പ്രചോദിപ്പിക്കും കൂടാതെ സംഘടനയ്ക്ക് പ്രശ്നങ്ങൾ കുറവായിരിക്കും എച്ച്ആർ ആസൂത്രണം നമ്മൾ സംസാരിക്കുന്നത് വികസനത്തെക്കുറിച്ചാണ് ആസൂത്രണത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം ആസൂത്രണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ജോലികൾ രൂപകൽപ്പന ചെയ്യുന്നതിനെക്കുറിച്ചാണ് എച്ച്ആർ പ്ലാനിംഗ് വിവിധ രീതികളിൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഓരോ ജീവനക്കാരന്റെയും മികച്ച കഴിവുകൾ ഉപയോഗിക്കുന്നതിന് ജോലി രൂപകൽപ്പന ചെയ്യണം ജോലികൾ ബാൻഡ് ചെയ്യാനും കഴിയും അതായത് ഒരേ തരത്തിലുള്ള സ്വഭാവസവിശേഷതകളുള്ള ജോലികൾ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്താം കൂടാതെ ആ വിഭാഗത്തിനുള്ളിലെ പുരോഗതി ജീവനക്കാർക്ക് വ്യക്തമാക്കാം ജീവനക്കാർക്ക് ഉത്തരവാദിത്തമുള്ള പ്രകടന മാനദണ്ഡങ്ങൾ ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്നതിന് തൊഴിൽ വിവരണങ്ങളും പ്രവർത്തന പദ്ധതികളും വികസിപ്പിക്കണം അതിനാൽ എച്ച്ആർ ആസൂത്രണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ജീവനക്കാരോട് പ്രതീക്ഷകൾ അറിയിക്കുന്നു അവരുടെ ജോലി എന്താണെന്ന് നമ്മൾ അവരോട് പറയുന്നു അവരുടെ വർക്ക് പ്ലാൻ വികസിപ്പിക്കാൻ നമ്മൾ അവരെ സഹായിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വർക്ക് പ്ലാനുകൾ നൽകുക എപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവരോട് പറയുക അവർക്ക് സമയപരിധി നൽകുക കൂടാതെ നമ്മൾ അവരെ ഉത്തരവാദികളാക്കുന്നു നമ്മൾ അവരോട് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും എപ്പോഴാണ് അത് പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നു അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ന്യായമായ ഒരു കാലയളവ് നൽകുക തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അത് വീണ്ടും സന്ദർശിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ എന്താണ് വരുന്നതെന്ന് ആളുകൾക്ക് അറിയാമെങ്കിൽ ആളുകൾക്ക് ന്യായമായ ലക്ഷ്യമുണ്ട് അപ്പോൾ അഭികാമ്യമല്ലാത്ത പെരുമാറ്റത്തിൽ ഏർപ്പെടാനുള്ള അവരുടെ സാധ്യത ഗണ്യമായി കുറയുന്നു കൂടാതെ ഓരോ ജീവനക്കാരന്റെയും മികച്ച കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ ജോലികൾ രൂപകൽപ്പന ചെയ്യണം അതിനാൽ ജോലികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവനക്കാർക്ക് ഇതിനകം ഉള്ളതെന്തും ഉപയോഗിക്കാൻ കഴിയും തുടർന്ന് അത് അവരെ സഹായിക്കുന്നു അവരുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുക ഇത് ജീവനക്കാരുടെ ഇടപഴകൽ വർദ്ധിപ്പിക്കുന്നു അത് അവർ ചെയ്യുന്നതെന്തിലും അവരുടെ താൽപ്പര്യം നിലനിർത്തുന്നു കൂടാതെ അതാകട്ടെ ജീവനക്കാരിൽ നിന്ന് പരമാവധി ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് ഓർഗനൈസേഷനെ സഹായിക്കുന്നു കൂടാതെ ഇത് ജീവനക്കാരെ ഓർഗനൈസേഷനായി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാക്കാനും താൽപ്പര്യം നിലനിർത്താനും സഹായിക്കുന്നു പ്രകടനം വിലയിരുത്തൽ ജീവനക്കാർ അവരുടെ ജോലി ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് ജീവനക്കാരന്റെ ഔട്ട്പുട്ടിന്റെ ഗുണനിലവാരം വിലയിരുത്താനുള്ള സമയമാണിത് അതിനാൽ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും പ്രകടന മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങളുടെ ന്യായമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണം ഒരാൾക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒരു തലത്തിൽ പ്രകടന വിലയിരുത്തൽ മാനദണ്ഡം സജ്ജീകരിക്കണം അത് മതിയായതും ബുദ്ധിമുട്ടുള്ളതും വെല്ലുവിളി നിറഞ്ഞതുമായിരിക്കണം പക്ഷേ അത് നേടിയെടുക്കാവുന്നതായിരിക്കണം അത് ന്യായയുക്തമായിരിക്കണം ഇടയ്ക്കിടെയും ഉടനടിയും ഉള്ള ഇടപെടലുകളോടെ തുടർച്ചയായ ഫീഡ്ബാക്ക് കീഴുദ്യോഗസ്ഥർക്ക് നൽകൽ അതായത് ജീവനക്കാർക്ക് തുടർച്ചയായ ഫീഡ്ബാക്ക് നൽകണം അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പതിവായി പറയണം കൂടാതെ അവരുടെ കഴിവിന്റെ പരമാവധി കഴിയുന്നത്രയും ചെയ്യാൻ അവരെ സഹായിക്കുന്നതിന് ഇടപെടലുകൾ നടത്താം അല്ലെങ്കിൽ നടത്തണം അതിനാൽ ഫീഡ്ബാക്ക് പതിവായി നടത്തണം അവരുടെ ജോലി അവരുടെ സൂപ്പർവൈസർമാർ സന്ദർശിക്കണം ജീവനക്കാരൻ തന്റെ പരമാവധി ശേഷിയിലാണോ അതോ പ്രതീക്ഷിച്ച നിലയിലാണോ പ്രകടനം നടത്തുന്നതെന്ന് അവർ പരിശോധിക്കണം കൂടാതെ സാധ്യമാകുമ്പോഴെല്ലാം സൂപ്പർവൈസർ ഇടപെടണം കൂടാതെ ജീവനക്കാരനെ സഹായിക്കുക അല്ലെങ്കിൽ ജീവനക്കാരനെ ശരിയായ ദിശയിലേക്ക് നയിക്കുക കൂടാതെ മോശം പ്രകടനത്തിന് ജീവനക്കാരനെ അച്ചടക്കത്തിലാക്കേണ്ടതിന്റെ ആവശ്യകത കുറയും തെറ്റായ ഡിസ്ചാർജ് അല്ലെങ്കിൽ വിവേചന സ്യൂട്ടുകളിൽ നിന്ന് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് ജീവനക്കാരുടെ വിലയിരുത്തലുകളുടെ ശരിയായ ഡോക്യുമെന്റേഷൻ അതിനാൽ ഒരു ജീവനക്കാരന്റെ പ്രകടനത്തെ സംബന്ധിച്ച ഡോക്യുമെന്റേഷൻ എല്ലായ്പ്പോഴും നിലനിർത്തണം കൂടാതെ പിന്നീട് എന്തെങ്കിലും കാരണവശാൽ ജീവനക്കാരനെ യുക്തിരഹിതമായി ചെയ്യുന്നതായി കണ്ടെത്തിയാൽ ജീവനക്കാരന്റെ മികച്ച പ്രകടനത്തിന്റെ മുൻകാല രേഖകൾ വന്നേക്കാം അത് ജീവനക്കാരന് പിന്തുണയായി ഉപയോഗിക്കാം അതിനാൽ ഉടനടി ജീവനക്കാരനെ പുറത്താക്കില്ല മറുവശത്ത് ഒരു ജീവനക്കാരൻ പതിവായി അനഭിലഷണീയമായ പെരുമാറ്റത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് ഈ രേഖകൾ ജീവനക്കാരന്റെ കാര്യത്തിലും വളരെ ദോഷകരമാണ് അതിനാൽ ഇത് രണ്ട് തരത്തിലും പ്രവർത്തിക്കുന്നു പക്ഷേ ഡോക്യുമെന്റേഷൻ എപ്പോഴും സഹായിക്കുന്നു മിക്ക കേസുകളിലും ജീവനക്കാരെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രശ്നങ്ങൾ മോശം പ്രകടനത്തിന്റെ രേഖകൾ എന്നിവയിൽ നിന്ന് രക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു അത് ആത്യന്തികമായി ഓർഗനൈസേഷന് അവരെ പുറത്താക്കാൻ ഒരു കാരണമായി മാറിയേക്കാം പ്രകടന ഫലങ്ങൾക്ക് പുറമേ ജീവനക്കാരുടെ പെരുമാറ്റം അളക്കുന്നതിനുള്ള പ്രകടന വിലയിരുത്തലുകളുടെ കഴിവ് അതിനാൽ ജീവനക്കാർക്ക് ഫീഡ്ബാക്ക് ലഭിക്കുന്നു രീതികളെക്കുറിച്ച് അവർ പ്രതീക്ഷിക്കുന്ന പ്രകടന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഉപയോഗിക്കുന്നു ചില മുൻ പ്രഭാഷണങ്ങളിൽ ഒരാളുടെ പ്രകടനത്തിന്റെ വളരെ കൃത്യമായ അളവുകോലുകളായി പ്രകടന മൂല്യനിർണ്ണയങ്ങൾ ശരിക്കും പരിഗണിക്കപ്പെടുന്നില്ലെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ പ്രകടന വിലയിരുത്തലുകൾക്ക് ജീവനക്കാരുടെ പെരുമാറ്റം അളക്കാൻ കഴിയണം അതിനാൽ ചില വഴികളിൽ ജീവനക്കാരന്റെ പെരുമാറ്റം അവന്റെ അല്ലെങ്കിൽ അവളുടെ ഉൽപ്പന്നം എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഫീഡ്ബാക്കിന്റെ ഉദ്ദേശ്യത്തിനായി അവ ഉപയോഗിക്കാനാകും പെരുമാറ്റം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് പ്രൊഫഷണൽ പെരുമാറ്റം കഴിയുന്നിടത്തോളം ജോലിയുമായി ബന്ധപ്പെട്ട പെരുമാറ്റം ആണ് കൂടാതെ ഇവിടെത്തെ അവസാന പോയിന്റ് നഷ്ടപരിഹാരം ആണ് നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഇടപെടാം നഷ്ടപരിഹാരം എന്നത് എല്ലാ ജീവനക്കാരെയും പോലെ ന്യായമായ ശമ്പള നയങ്ങളുടെ ധാരണയാണ് അതിനാൽ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് വ്യക്തിക്ക് ലഭിക്കുന്ന പണം ജീവനക്കാരന് ലഭിക്കുന്ന ശമ്പളം ആനുകൂല്യങ്ങൾ എന്നിവ ന്യായമാണെന്ന് ഉറപ്പാക്കാൻ സജീവമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ജീവനക്കാരൻ വഴി എല്ലാ വിധത്തിലും സാധ്യമാണ് കൂടാതെ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയ അനീതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രശ്നങ്ങൾ തടയാൻ അത് സഹായിക്കും ജീവനക്കാർക്ക് വെല്ലുവിളിക്കാനുള്ള അവകാശം ശമ്പള തീരുമാനം എന്നിവ നൽകുന്ന ഒരു അപ്പീൽ സംവിധാനം അതിനാൽ ന്യായമായ നഷ്ടപരിഹാര സമ്പ്രദായം ഉണ്ടായിരിക്കുന്നതിനൊപ്പം ജീവനക്കാർക്ക് അവരുടെ സേവനങ്ങൾക്ക് എന്തിനാണ് X നൽകുകയും Y നൽകാതിരിക്കുകയും ചെയ്യുന്നതെന്ന് ഓർഗനൈസേഷനോട് ചോദിക്കാനുള്ള ഒരു മാർഗവും സൌകര്യപ്രദവും സുരക്ഷിതവും നിരുപദ്രവകരവുമായ മാർഗവും ഉണ്ടായിരിക്കണം ഇത് ജീവനക്കാരെ പ്രതിബദ്ധത നിലനിർത്താൻ സഹായിക്കുന്നു തങ്ങളോട് നീതിയോടെയാണ് പെരുമാറുന്നതെന്ന് അവർക്ക് തോന്നുന്നുവെങ്കിൽ സംഘടനയ്ക്ക് ഹാനികരമായേക്കാവുന്ന പെരുമാറ്റങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത കുറവാണ് കൂടാതെ എച്ച്ആർ മാനേജർമാർക്കും പ്രൊഫഷണലുകൾക്കും വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില തന്ത്രങ്ങൾ ഇവയാണ് ഓരോ ഘട്ടത്തിലും ഒരു ജീവനക്കാരന്റെ തൊഴിൽ ജീവിതത്തിൽ നമ്മൾക്ക് ഇടപെടാൻ കഴിയും കൂടാതെ ജീവനക്കാരുടെ യുക്തിരഹിതമായ പെരുമാറ്റത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നമ്മളുടെ ശേഷിയിലുള്ളതെന്തും നമുക്ക് ചെയ്യാൻ കഴിയും കൂടാതെ അവരെ അച്ചടക്കം പാലിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കഴിയുന്നിടത്തോളം കുറയ്ക്കുന്നു ഇപ്പോൾ ഇത്രമാത്രമാണ് ഈ പ്രഭാഷണത്തിൽ നിങ്ങൾക്കായുള്ളത് കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമ്മൾ ചർച്ച ചെയ്തവ വരാനിരിക്കുന്ന സെഷനിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കും ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചതിന് വളരെ നന്ദി